അവസാന ക്ലാസ്സിൽ നമ്മൾ വെരി നിയർ ടിപ്പ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങൾ പരിശോധിച്ചു ഡിസ്പ്ലേസ്മെൻറ് സമവാക്യങ്ങൾ വികസിപ്പിക്കുന്നതിനിടയിലും നമ്മൾ സ്ട്രെസ് ഫംഗ്ഷനെ രണ്ട് വ്യത്യസ്ത രീതികളിൽ നിലനിർത്തുന്നു എന്നു പറഞ്ഞു ഉറവിടം ക്രാക്ക് ടിപ്പിൽ സൂക്ഷിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്താനും നമ്മൾക്ക് കഴിഞ്ഞു ഒപ്പം വിള്ളലിന്റെ കേന്ദ്രത്തിൽ ഉത്ഭവസ്ഥാനം നിലനിർത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്താനും നമ്മൾക്ക് കഴിഞ്ഞു ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് കണ്ടെത്തുന്നതിനായി നമ്മൾ തുടങ്ങി നിങ്ങൾക്ക് ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് ലഭിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ നമുക്ക് ഒരു വിള്ളൽ തുറന്നിരിക്കുമ്പോഴാണ് ഇതിനെ നിങ്ങൾ COD എന്ന് വിളിക്കുന്നതായി നിർവചിച്ചിരിക്കുന്നത് Z 1 എന്താണെന്നും Z 1 ബാർ എന്താണെന്നും നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് വിള്ളലിന്റെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സ്ട്രെസ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കും നമുക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് നമ്മൾ പ്രധാനമായും കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് ഡിസ്പ്ലേസ്മെൻറ് u y അത് 1 ബൈ 2 G ഗുണം 2 ബൈ 1 പ്ലസ് ന്യൂ Z 1 ബാർ സാങ്കല്പിക ഭാഗം മൈനസ് y Z 1 ന്റെ റിയൽഭാഗം ആണ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു വിദ്യാർത്ഥി വന്ന് എന്നോട് ചോദിച്ചു നിങ്ങൾ y 0 ന് തുല്യമാണെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ നിങ്ങൾക്ക് COD ലഭിക്കുന്നു കാരണം y 0 ന് തുല്യമാണെന്നത് ക്രാക്ക് അക്ഷം പൂർണ്ണമായും വിള്ളലിനുള്ളിലും ക്രാക്കിന് പുറത്തുള്ളതുമാണ് എന്നതാണ് ഇവിടെ സംശയത്തിന് ആസ്പദം എന്നാൽ നമ്മുടെ വികസനത്തിൽ വ്യക്തമായി അനുമാനിക്കുന്നത് മൈനസ് a മുതൽ പ്ലസ് a വരെയുള്ള വിള്ളൽ ദൈർഘ്യത്തിനായി മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടങ്ങൾ വികസിപ്പിക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിൽ സൂക്ഷിക്കണം അതിനാൽ ആ വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ COD കണ്ടെത്തുകയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കാം അതാണ് ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് അത് ഡിസ്പ്ലേസ്മെൻറ് u y യെ 2 കൊണ്ട് ഗുണിക്കണം കാരണം നിങ്ങൾ ഒരു വശത്ത് കണ്ടെത്തും അടിഭാഗം u y യുടെ അതേ മൂല്യത്തിൽ ഉണ്ടാകും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഇരട്ടി u y ആണ് ഇത് എങ്ങനെ നേടാമെന്ന് നോക്കാം ഇന്റഗ്രൽ സിഗ്മ z d z വിഭജനം റൂട്ട് z സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്നത് കണ്ടുപിടിക്കണം വാസ്തവത്തിൽ അവസാന ക്ലാസ്സിൽ നിങ്ങൾ ഇന്റഗ്രലുകളുടെ പട്ടിക ആവർത്തനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കൂടാതെ വേരിയബിളിന് പകരമായി മാറ്റിവെക്കുമ്പോൾ ഇന്റഗ്രലിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്ന് നോക്കാം ഞാൻ നിങ്ങൾക്ക് സൂചനകൾ നൽകാൻ തുടങ്ങും തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകാം അതിനാൽ ഇതിന്റെ ഇന്റഗ്രൽ വിലയിരുത്തേണ്ടിവരുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വേരിയബിളിന് പകരമായി നൽകാം നിങ്ങൾക്ക് m എന്നത് z സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്ന് നിർവചിക്കാം ഞാൻ ഇതുപോലെ m നിർവചിച്ചുകഴിഞ്ഞാൽ dm എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അത് 2 z dz ആണ് അതിനുശേഷം നിങ്ങൾക്ക് ഇത് പകരം വയ്ക്കാനും ഇന്റഗ്രൽ മൂല്യം വിലയിരുത്താനും കഴിയും അതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് ഞാൻ കരുതുന്നു ക്ലാസ് ഒരു മിനിറ്റ് ആലോചിച്ച് അതിൽ പ്രതിഫലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾ ഇത് സ്വന്തമായി ചെയ്യണമെന്നും എന്റെ സ്ലൈഡിൽ നിന്നുള്ള ഫലം സ്ഥിരീകരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം ഏകദേശം മൂന്ന് ഡെറിവേറ്റേഷനുകൾ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സാധാരണ ഗതിയിൽ ഞാൻ അതിൽ പകുതി മാത്രമേ പൂർത്തിയാക്കൂ ഇത് റെക്കോർഡു ചെയ്യുന്നത് കാരണം തുടർച്ച നൽകുന്നതിനായി ഞാൻ മൂന്ന് ഡെറിവേറ്റേഷനുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഓരോന്നിനും ഒരു ആശയപരമായ ഘട്ടവും തുടർന്ന് ഗണിതശാസ്ത്ര ഡെറിവേറ്റേഷനുമുണ്ട് ആശയം ഉൾക്കൊള്ളുന്നതിനായി വിദ്യാർത്ഥികൾക്ക് പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് സമയം ആവശ്യമാണ് അതിനാൽ ഈ പ്രക്രിയയിൽ നിങ്ങൾക്ക് കുറച്ച് വിരാമങ്ങൾ ഉണ്ടാകും കോഴ്സ് പഠിക്കാൻ അത് അത്യന്താപേക്ഷിതവും ആവശ്യമാണ് ഞാൻ ഒന്നിനുപുറകെ ഒന്നായി വിവരങ്ങൾ പമ്പ് ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് സ്വാംശീകരിക്കുന്നതിനേക്കാൾ പകർത്തുക ആവും ചെയ്യുക അതിനാൽ വീഡിയോ ഡൌൺലോഡ് ചെയ്ത് കോഴ്സ് ഉപയോഗിക്കാൻ പോകുന്ന ആളുകൾക്ക് പോലും ആരോഗ്യകരമായ വിരാമങ്ങൾ ഉണ്ടാകും അതിനാൽ വിദ്യാർത്ഥികൾ ചിന്തിക്കാനും ഉത്തരം നൽകാൻ ശ്രമിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് സ്ലൈഡുകളിൽ നൽകിയിരിക്കുന്നതിൽ നിന്ന് ഉത്തരം പരിശോധിക്കുക അതിനാൽ കോഴ്സിനൊപ്പം ചിന്തിക്കുക അതിനാൽ ഈ സൂചന നൽകിയ ശേഷം നിങ്ങൾക്ക് ഇന്റഗ്രൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത് വളരെ ലളിതമാണ് ഒരേയൊരു കാര്യം നിങ്ങൾക്ക് ബന്ധം നഷ്ടപ്പെട്ടിരിക്കാം എന്നതാണ് അതിനാൽ എനിക്ക് ഇവിടെ പുന സ്ഥാപിക്കാം അതിനാൽ ഇത് സിഗ്മ ഗുണം dm ബൈ 2 വിഭജനം റൂട്ട് m എന്നാകുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള അന്തിമ പദപ്രയോഗം ലഭിച്ചുകഴിഞ്ഞാൽ ഇന്റഗ്രൽ മൂല്യം കണ്ടെത്തുന്നത് വളരെ ലളിതമാണ് അതിനാൽ നിങ്ങൾക്ക് അന്തിമ മൂല്യം ഇതുപോലെ നൽകിയിരിക്കുന്നു ഇത് സിഗ്മ റൂട്ട് m ആണ് നമ്മൾ ഇതിനകം m നെ z സ്ക്വയർ മൈനസ് a സ്ക്വയർ ആയി നിർവചിച്ചിരിന്നു ഇത് സിഗ്മ റൂട്ട് z സ്ക്വയർ മൈനസ് a സ്ക്വയർ ആണ് അപ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ടത് x ന്റെ ഏത് മൂല്യത്തിനും y 0 എന്നതിന് തുല്യമായ വരിയിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഇതിനെ സിഗ്മ റൂട്ട് x സ്ക്വയർ മൈനസ് a സ്ക്വയർ ആയി ലഭിക്കുന്നു ഇവിടെ നമ്മൾ ശരിക്കും വിള്ളൽ വീക്ഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ x ന്റെ ഒരു മൂല്യത്തെയുംക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ മൈനസ് a പ്ലസ് aഎന്നിവയ്ക്കിടയിലാണ് സംസാരിക്കുന്നത് അതിനാൽ നിങ്ങൾ അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഈ പദപ്രയോഗം ഞങ്ങളുടെ ഉപയോഗത്തിനായി സൌകര്യപ്രദമായി പുനർനിർമ്മിക്കാൻ കഴിയും കാരണം നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾ ഈ രീതിയിൽ എഴുതിയാൽ i സിഗ്മ റൂട്ട് a സ്ക്വയർ മൈനസ് x സ്ക്വയർ ഈ ഡൊമെയ്നിൽ X മൈനസ് a യിൽ നിന്ന് പ്ലസ് aയിലേക്ക് മാറുമ്പോൾ ഇത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയി തുടരും ഇവിടെ നിങ്ങൾ കണ്ടെത്തുന്നത് ഇതിന്റെ ഇന്റഗ്രൽ ആണ് i സിഗ്മ റൂട്ട് a സ്ക്വയർ മൈനസ് x സ്ക്വയർ ആണ് ഇത് മനപ്പൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു കാരണം നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് സമവാക്യം നോക്കുമ്പോൾ എനിക്ക് Z 1 ബാറിന്റെ സാങ്കൽപ്പിക ഭാഗം ഉണ്ട് അതിനാൽ Z1 ബാർ ന്റെ സാങ്കൽപ്പിക ഭാഗം എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ഇത് ഇതിനകം ഉണ്ട് സിഗ്മ റൂട്ട് a സ്ക്വയർ മൈനസ് x സ്ക്വയർ ആയി എനിക്ക് ഇത് ലളിതമായി പറയേണ്ടി വരും നിങ്ങളുടെ സൌകര്യത്തിന് u y നുള്ള പദപ്രയോഗം വീണ്ടും നൽകുന്നു എനിക്ക് ഇത് 1 ബൈ 2 G ഗുണം 2 ബൈ 1 പ്ലസ് ന്യൂ Z1 ബാറിന്റെ സാങ്കൽപ്പിക ഭാഗം ആണ് ഇപ്പോൾ എനിക്ക് സാങ്കൽപ്പിക ഭാഗം വളരെ സുഖകരമായി മാറ്റിസ്ഥാപിക്കാൻ കഴിയും Z 1 ന്റെ യഥാർത്ഥ ഭാഗത്തെക്കുറിച്ച് എനിക്ക് വിഷമിക്കേണ്ടതില്ല കാരണം നമ്മൾ എടുക്കുന്ന വരയിൽ y പൂജ്യത്തിനു തുല്യമാണ് അതിനാൽ രണ്ടാമത്തെ ടേം ഒഴിവാക്കപ്പെടും എനിക്ക് ഇതുപോലുള്ള പദപ്രയോഗമുണ്ട് ഒടുവിൽ എനിക്ക് u y 1 ബൈ 2 G 2 സിഗ്മ വിഭജനം 1 പ്ലസ് ന്യൂ റൂട്ട് a സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന് ലഭിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗം ഉള്ളപ്പോൾ ഈ പരിഹാരം ക്രാക്ക് സെൻറർ ഉറവിടമായി മാത്രമേ സാധുതയുള്ളൂവെന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കണം അല്ലെങ്കിൽ അത് അർത്ഥം വഹിക്കില്ല നമ്മുടെ മുമ്പത്തെ കണക്കിൽ നിന്ന് ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് 2 മടങ്ങ് u y ആണെന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കുമ്പോൾ COD എന്നത് 4 സിഗ്മ വിഭജനം E റൂട്ട് a സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന് ലഭിക്കുന്നു ഈ സമവാക്യം നിങ്ങളെ എന്താണ് അറിയിക്കുന്നത് COD 4 സിഗ്മ വിഭജനം E റൂട്ട് a സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്നാണ് നമുക്ക് ലഭിച്ചത് നിങ്ങളുടെ ഗണിതശാസ്ത്ര പരിജ്ഞാനത്തിൽ നിന്ന് വളരെ രസകരമായ മറ്റു വിവരങ്ങൾ കൈമാറാൻ ഇത് ശ്രമിക്കുന്നുണ്ടോ ഈ സമവാക്യം മറ്റേതെങ്കിലും രൂപത്തിൽ പുനക്രമീകരിക്കാൻ കഴിയുമോ അതും നിങ്ങൾ നോക്കേണ്ടതുണ്ട് കാരണം എന്റെ എല്ലാ ആനിമേഷനുകളിലും ഞാൻ പറയുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരു എലിപ്സ് ആയി ക്രാക്ക് ഓപ്പണിംഗ് ശ്രദ്ധാപൂർവ്വം എടുത്തിട്ടുണ്ട് ഈ സമവാക്യത്തിൽ ആ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടോ ഇത് തീർച്ചയായും പരിഹരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് നോക്കുമ്പോൾ ഇത് y ഡിസ്പ്ലേസ്മെൻറ് മാത്രമാണ് അതിനാൽ എനിക്ക് ഇതിനെ x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാംഇത് 1 നു തുല്യമാണ് അതാണ് നിങ്ങളുടെ എലിപ്സ് ന്റെ പൊതു സമവാക്യം വലുതും ചെറുതുമായ അക്ഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് പരാമർശിക്കുമ്പോൾ എലിപ്സ് സമവാക്യം അങ്ങനെയായിരിക്കും അതിനാൽ ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു എലിപ്സ് പോലെ തുറക്കുന്ന ഒരു ക്രാക്ക് ലഭിക്കും അതാണ് വിവരങ്ങളുടെ ഒന്നാം നമ്പർ മറ്റൊന്ന് പരമാവധി ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റിന്റെ മൂല്യം എന്താണെന്നും അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു X 0 ന് തുല്യമാകുമ്പോൾ പൂജ്യത്തോട് അടുക്കുന്നു എന്ന നിങ്ങൾ ഇത് എടുക്കേണ്ടതില്ല ഇത് x 0 ന് തുല്യമായി എടുക്കുക പരമാവധി ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് 4 സിഗ്മ a ബൈ യംഗ്സ് മോഡുലസ് ആണ്

ഇത് വളരെ ഉപയോഗപ്രദമായ വിവരമാണ് വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾക്ക് വെരി നിയർ സ്ട്രിപ്പ് സ്ട്രെസ് ഫീൽഡും ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡും കണ്ടെത്താൻ കഴിഞ്ഞു തുടർന്ന് നമ്മൾ ഒരു പടി കൂടി നീങ്ങി വിള്ളൽ എങ്ങനെ തുറക്കുന്നുവെന്ന് കണ്ടെത്തി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഊർജ്ജ സമീപനത്തെ അടിസ്ഥാനമാക്കി ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് എന്താണെന്ന് നമ്മൾ ഇതിനകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ട്രെസ് സമീപനത്തെ അടിസ്ഥാനമാക്കി സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എന്താണെന്ന് നമ്മൾ വികസിപ്പിച്ചെടുത്തു അവ ശരിക്കും വ്യത്യസ്തമാകാൻ കഴിയില്ല ഏതെങ്കിലും തരത്തിലുള്ള പരസ്പര ബന്ധം സാധ്യമാകുമെന്ന് നിങ്ങൾക്കറിയാം നമ്മൾക്ക് സ്ട്രെസ് ഫീൽഡും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡും ഉള്ളതിനാൽ പരസ്പരബന്ധം കണ്ടെത്താൻ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച വിവരങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമോ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഞാൻ രണ്ട് രീതികൾ ചർച്ചചെയ്യാൻ പോകുന്നു ഓരോ രീതിയിലും ഒരു ആശയപരമായ ഘട്ടമുണ്ട് ആശയം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സൂക്ഷ്മമാണ് അതിനുശേഷം ഒരു ഗണിതശാസ്ത്ര രീതിയിൽ മുന്നേറും ഗണിതശാസ്ത്ര വികസനത്തിനായി നിങ്ങൾ വീണ്ടും ഇന്റഗ്രലുകളുടെ പട്ടികയിലേക്ക് പോയി നിങ്ങൾക്കറിയാമോ ഇതെല്ലാം നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ ആദ്യ വർഷത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാം വർഷം പഠിച്ചിരിക്കണം നിങ്ങൾ അവ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവയിൽ ചിലത് നിങ്ങൾ മറക്കാൻ സാധ്യതയുണ്ട് വിള്ളൽ മുഖങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് അടിസ്ഥാനമാക്കി G യുടെ വിലയിരുത്തൽ അതിനാൽ വിള്ളൽ മുഖങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ് അടിസ്ഥാനമാക്കിയുള്ള ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തും എനിക്കറിയാവുന്ന വിവരങ്ങൾ എന്താണ് ലോഡ് ക്രമേണ സിഗ്മയിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വിള്ളൽ തുറക്കുന്ന ഒരു നല്ല ആനിമേഷൻ ഉണ്ട് ഓർക്കുക ഇത് വളരെ അതിശയോക്തി കലർന്ന ഒരു ചിത്രമാണ് ഇത് ദൃശ്യവൽക്കരണത്തിനുള്ളതാണ് നാം വികസിപ്പിച്ചെടുത്തതിൽ നിന്ന് നമുക്കെന്തറിയാം വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ വികസിപ്പിക്കുന്നതിന് മുമ്പ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് നോക്കുമ്പോൾ വിള്ളൽ ഉപരിതലം വിള്ളൽ മുഖം എങ്ങനെ മാറുന്നു എന്ന് നമ്മൾക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ നമ്മൾക്ക് ആ വിവരങ്ങൾ ഉണ്ട് COD വികസനത്തിൽ നിന്ന് v ഡിസ്പ്ലേസ്മെന്റ് 2 സിഗ്മ വിഭജനം E റൂട്ട് a സ്ക്വയർ മൈനസ് x സ്ക്വയർ ആണെന്ന് നമുക്കറിയാം ഇപ്പോൾ നല്ലതായിരിക്കുന്നു നമ്മൾക്ക് ഒരു പടി കൂടി കടക്കാം ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് വികസിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരു സാമ്യത കൈക്കൊള്ളുകയും ആനുപാതികത കോൺസ്റ്റൻഡ് പൈ ബൈ 2 പോലെയാണെന്നും പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഊർജ്ജം കണക്കാക്കുകയും നിങ്ങൾ അത് തുടരുകയും ചെയ്തു മുൻകൂട്ടി നടത്തിയ പഠനങ്ങളിൽ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് അതിനാൽ ഇത് അതുമായി സമമായി ഇരിക്കുന്നു കൂടാതെ ഊർജ്ജ പുറന്തള്ളൽ നിരക്കിന്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോൾ അനന്തമായ പ്ലേറ്റിലെ സെന്റർ ക്രാക്കിന്റെ ഒരു പ്രശ്നം ഞാൻ എടുക്കാം ഓർക്കുക ഏകീകൃത ലോഡിംഗ് സാഹചര്യത്തിനായി നമ്മൾ ഒരു ബയാക്സിയൽ സ്ട്രെസ് ഫീൽഡ് സമവാക്യം ഉപയോഗിക്കുന്നു അതിനുള്ള ഒരുതരം ന്യായീകരണം നമ്മൾ കണ്ടു ആദ്യ രീതിയിൽ കേന്ദ്ര വിള്ളൽ ഉള്ള അനന്തമായ പ്ലേറ്റിലേക്ക് മാത്രമേ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുള്ളൂ എല്ലാം അറിയുന്ന ഒരു സാധാരണ പ്രശ്നത്തിലേക്ക് മാത്രം നമ്മൾ നമ്മുടെ ശ്രദ്ധ പരിമിതപ്പെടുത്തും ഈ പ്രശ്നത്തിന് നമ്മൾ പറഞ്ഞത് K എന്നത് സിഗ്മ റൂട്ട് pi a ആണെന്നും നിങ്ങളുടെ ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് എന്താണെന്നും നിങ്ങൾക്കറിയാം അതിനാൽ പരിഹാരത്തെ അടിസ്ഥാനമാക്കി G യും E യും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് നേരിട്ട് എഴുതാൻ കഴിയും നമ്മൾ അങ്ങനെ ചെയ്യില്ല മറ്റൊരു ഫാഷനിൽ നിന്ന് നോക്കാൻ നമ്മൾ ശ്രമിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച അധിക വിവരങ്ങൾ ലോഡുകൾ പ്രയോഗിക്കുമ്പോൾ വിള്ളൽ തുറക്കും ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് വികസിപ്പിക്കുന്നതിന് ഈ അധിക വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സൂചന നമ്മൾ റിവേർസിബിൾ സിസ്റ്റങ്ങളിലേക്ക് നോക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം അവിടെ ഊർജ്ജ നഷ്ടമില്ല മുഖം തുറക്കാൻ എനിക്ക് കുറച്ച് ഊർജ്ജം ആവശ്യമാണെന്ന് കരുതുക അല്ലെങ്കിൽ മുഖം അടയ്ക്കാൻ എനിക്ക് കുറച്ച് ഊർജ്ജം ഉണ്ടെങ്കിൽ അത് രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ഊർജ്ജമായിരിക്കും ഈ രീതിയിൽ നിങ്ങൾ അത് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് സൂപ്പർപോസിഷന്റെ തത്ത്വം പ്രാവർത്തികമാക്കുന്നതിലൂടെ ഈ പ്രശ്നത്തിന്റെ ലളിതമായ ഒരു പ്രാതിനിധ്യം രണ്ട് ഉപ പ്രശ്നങ്ങളുടെ ആകെത്തുകയായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ ആ ദിശയിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് കണക്കാക്കാൻ നിങ്ങൾക്ക് v എന്ന പദപ്രയോഗം ഉപയോഗിക്കാൻ കഴിയും ദയവായി അതിനെക്കുറിച്ച് ചിന്തിക്കുക

ഇതുപോലുള്ള പ്രശ്നം യഥാർത്ഥ പ്രശ്നം എനിക്ക് ഒരു വിള്ളലുണ്ട് അത് ലോഡ് സിഗ്മയ്ക്ക് വിധേയമാക്കുകയും വിള്ളൽ തുറക്കുകയും ചെയ്യുന്നു ഇതിലേക്ക് പോകാൻ എനിക്ക് രണ്ട് ഉപ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയുമോ ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം എനിക്ക് ഒരു വിള്ളൽ ഇല്ലാതെ ഒരു പ്ലേറ്റ് ഉണ്ടെന്നും കൂടാതെ എനിക്ക് സമാനമായ ഒരു പ്ലേറ്റ് ഉണ്ടെന്നും അതിൽ എനിക്ക് ഇരുവശത്തും കുറച്ച് ലോഡ് പ്രയോഗിക്കുമ്പോൾ തുറക്കുന്ന വിള്ളൽ ഉണ്ടെന്നും എനിക്ക് ഊഹിക്കാൻ ആകും ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ ഇതാണ് എനിക്ക് ഉള്ള പ്രശ്നം ഇത് ഈ പ്രശ്നത്തിന്റെ പരിഹാരമായും ഇതുപോലുള്ള പ്രശ്നത്തിന്റെ പരിഹാരമായും കണക്കാക്കാം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ ലഭിക്കുന്ന സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്തായാലും ഈ പ്രശ്നത്തിൽ എനിക്ക് ലഭിക്കുന്നതിന് തുല്യമായിരിക്കണം ഇവിടെ എനിക്ക് ഒരു വിള്ളൽ ഉണ്ട് ലോഡ് എന്തായിരിക്കണമെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട് അതും ആവശ്യമാണ് ക്രാക്ക് തുറക്കേണ്ടതുണ്ട് ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെൻറായി നമ്മൾക്ക് ഇതിനകം ലഭിച്ചവ വരെ അത് തുറക്കണം അതിനാൽ ഈ ക്രാക്ക് ടിപ്പിലെ ഏകത്വം എന്താണെന്ന് വ്യക്തമാക്കുന്ന അനുയോജ്യമായ ഒരു ഫോഴ്സ് സിസ്റ്റമാണ് ക്രാക്ക് തുറക്കുന്നതെന്ന് ഞാൻ പരിപാലിക്കുകയാണെങ്കിൽ അത് വിള്ളൽ സ്വഭാവത്തെ മാതൃകയാക്കും നിങ്ങൾ ഈ രണ്ട് പ്രശ്നങ്ങളും ചേർക്കുമ്പോൾ ഈ പ്രശ്നം സാധ്യമാണ് അത്തരം പരിഗണനയിൽ നിന്ന് ഈ പ്രശ്നത്തിനും അന്തിമ പ്രശ്നത്തിനും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ തുല്യമാണ് ഈ ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ് സിഗ്മ തന്നെയാണ് നിങ്ങൾ ഒരു ആന്തരിക മർദ്ദം നൽകുമ്പോൾ വിള്ളൽ തുറന്നു വരുന്ന പോലെയാണ് അതിനാൽ ഊർജ്ജ പുറന്തള്ളൽ കാഴ്ചപ്പാടിൽ അത് തുറക്കാൻ ഞാൻ എന്തുതന്നെ ചെയ്താലും രണ്ട് പുതിയ പ്രതലങ്ങൾ രൂപപ്പെടുത്തുന്നതിന് എനിക്ക് ആവശ്യമായ ഊർജ്ജമാണ് ഇത് ഒരു ചിന്താ പരീക്ഷണമാണെന്ന് മനസിലാക്കുക നിങ്ങൾ ഇത് മാനസികമായി ദൃശ്യവൽക്കരിക്കേണ്ടതുണ്ട് ഇപ്പോൾ സിഗ്മ ഉള്ളപ്പോൾ ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് ഇതിനകം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് v ഉള്ളപ്പോൾ ഈ വിവരങ്ങളുപയോഗിച്ച് ഊർജ്ജത്തിനായി നിങ്ങൾക്ക് എക്സ്പ്രഷൻ എഴുതാമോ നമ്മൾ ഇത് യൂണിറ്റ് തിക്നെസ്സ് ആയി എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ തന്നിരിക്കുന്ന വസ്തു യൂണിറ്റ് തിക്നെസ്സ് ആയി എടുത്തു പിന്നെ മുഴുവൻ ജോലിയും ചെയ്തു ഇതാണ് ആശയപരമായ ഘട്ടം രണ്ട് ഉപപ്രശ്നങ്ങളുടെ സൂപ്പർപോസിഷനായി നിങ്ങൾ ഇത് ദൃശ്യവൽക്കരിക്കണം എന്നതാണ് ആശയപരമായ ഘട്ടം അതിനാൽ ഊർജ്ജത്തിന് എക്സ്പ്രഷൻ എഴുതാം കാരണം നമ്മൾ എല്ലായ്പ്പോഴും ഊർജ്ജപ്രകടനമാണ് കാണുന്നത് നിങ്ങൾക്ക് സിഗ്മ ഗുണം സ്ട്രെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വോളിയം ഉണ്ട് നിങ്ങൾ ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്നു സ്ലൈഡിൽ വരുന്നതെന്തും ശരിയായിരിക്കണമെന്നില്ല എന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതിയതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചിന്ത പ്രയോഗിക്കുന്നില്ല നിങ്ങൾ അത് അന്ധമായി പകർത്തുകയാണ് നിങ്ങൾ ഇവിടെ വേർതിരിച്ചറിയേണ്ടത് നോക്കൂ ഞാൻ ഈ ഊർജ്ജ പദപ്രയോഗം എഴുതുമ്പോൾ എനിക്ക് സ്ട്രെസ് ഉണ്ട് അതിനാൽ എനിക്ക് ഫോഴ്സ് കണ്ടെത്തണമെങ്കിൽ അതിനെ വിസ്തീർണ്ണം കൊണ്ട് ഗുണിക്കണം പക്ഷെ ഞാൻ സ്ട്രെയിൻ കൊണ്ട് ഗുണിക്കുകയല്ല ഡിസ്പ്ലേസ്മെൻറ് കൊണ്ട് ഗുണിക്കുകയുമാണ് അതിനാൽ അടിസ്ഥാനപരമായി ഈ സമവാക്യം സിഗ്മ v ഗുണം d A ആണ് d v അല്ല അതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിള്ളൽ മുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തി സിഗ്മയാണെന്ന് ന്യായീകരിക്കുന്നതിനുള്ള ചിന്താ പരീക്ഷണം നമ്മൾ പരിശോധിച്ചു നിങ്ങൾക്കറിയാമോ ഇതാണ് ആശയപരമായ ഘട്ടം നമ്മൾക്ക് ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് ലഭിച്ചു എന്നതാണ് ആശയപരമായ ഘട്ടം എനിക്ക് ഊർജ്ജം കണ്ടെത്തേണ്ടി വരുമ്പോൾ ഫോഴ്സ് ഉം ഡിസ്പ്ലേസ്മെൻറ് ഉം എന്താണെന്ന് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് അത് സൂക്ഷ്മമാണ് ഇത് വളരെ സൂക്ഷ്മമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മുഖം തുറക്കാൻ നിങ്ങൾ സിഗ്മ പ്രയോഗിക്കേണ്ടതുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊർജ്ജത്തിനായി എക്സ്പ്രഷൻ എഴുതാം അപ്പോൾ അത് ഗണിതശാസ്ത്രത്തിലെ ഒരു പ്രശ്നം മാത്രമാണ് അതിനാൽ എനിക്ക് ഊർജ്ജം ഉണ്ട് കാരണം വിള്ളൽ ഇന്റഗ്രൽ മൈനസ് a മുതൽ a വരെ സിഗ്മ ഗുണം 2 സിഗ്മ വിഭജനം E ഗുണം റൂട്ട് a സ്ക്വയേർഡ് മൈനസ് x സ്ക്വയർ ആണ് മുകളിലെ ഉപരിതലത്തിനും താഴത്തെ ഉപരിതലത്തിനുമായി നിങ്ങൾ ഇതിനകം 2 കൊണ്ട് ഗുണിച്ചതിനാൽ വിള്ളൽ ഉപരിതലം മൈനസ് a മുതൽ പ്ലസ് a വരെ എടുക്കുന്നു അതിനാൽ ഈ സമവാക്യം എഴുതുക എന്നതാണ് പ്രധാന ആശയപരമായ ഘട്ടം ദൃശ്യവൽക്കരിക്കുന്നതിന് നിങ്ങൾ ഫോഴ്സ് എന്നത് സിഗ്മ ഗുണം dA ആയി എടുക്കണം നമ്മൾക്ക് ഒരു യൂണിറ്റ് കനം ഉണ്ട് അതിനാലാണ് d A dx ഗുണം 1 ആയും മാറുന്നത് എനിക്ക് കനം B ഉള്ള ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ക്യാപിറ്റൽ B ഉണ്ടായിരിക്കും കാരണം അങ്ങനെയാണ് നമ്മൾ ഫ്രാക്ചർ മെക്കാനിക്സിലെ കനം നിർവചിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഗണിതശാസ്ത്രത്തിലെ ഒരു അഭ്യാസമാണ് നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്റഗ്രലുകളുടെ പട്ടിക നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് എങ്ങനെ നേടാമെന്ന് നോക്കാം ഞാൻ നിങ്ങൾക്കായി ഒരു മിനിറ്റ് തരാം ഇത് ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഇത് നൽകികഴിഞ്ഞാൽ പിന്നീട് ഈ കോഴ്സ് ഉപയോഗിക്കാൻ പോകുന്ന ശ്രോതാക്കൾക്ക് പോലും നിങ്ങളുടെ സ്വന്തം രീതിയിൽ ഇന്റഗ്രൽ എഴുതാൻ ശ്രമിക്കുക സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ഫലം ഉപയോഗിച്ച് ഇത് പരിശോധിക്കുക സ്ലൈഡുകൾ തുടർച്ചയായി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വളരെ കുറച്ച് സമയമേ ലഭിക്കൂ അതിനാൽ നിങ്ങളുടെ മനസ്സ് പ്രയോഗിക്കുക തെറ്റുകൾ വരുത്തുക തെറ്റുകൾ വരുത്തുമെന്ന് ഭയപ്പെടരുത് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓർമശക്തി മെച്ചപ്പെടു ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തന്നു അതിനാൽ പദപ്രയോഗങ്ങൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇനി കാണിച്ചുതരാം അതിനാൽ നിങ്ങൾ ഇന്റഗ്രലുകളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പദപ്രയോഗം ലഭ്യമാണ് റൂട്ട് a സ്ക്വയർ മൈനസ് x സ്ക്വയർ dx എന്നത് x ബൈ 2 റൂട്ട് a സ്ക്വയർ മൈനസ് x സ്ക്വയർ പ്ലസ് a സ്ക്വയർ ബൈ സൈൻ ഇൻവേർസ് x ബൈ a എന്ന ലളിതമായ എഴുതാം ഇത് മൈനസ് a മുതൽ പ്ലസ് a വരെ ഉള്ള പരിധിയിൽ ആണ് ഇത് നിങ്ങൾ ലളിതമാക്കുന്നു സൈൻ ഇൻവേർസ് 1 ഉള്ളപ്പോൾ പകരം വയ്ക്കേണ്ടത് എന്താണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിനാൽ നിങ്ങൾ അതിനെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ആ മാന്ത്രിക നമ്പർ ലഭിക്കും കാരണം മുമ്പത്തെ സാമ്യതാ സമീപനത്തിൽ നമ്മൾ ലളിതമായി അന്തിമഫലവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ആനുപാതികത കോൺസ്റ്റൻസ് എടുത്തു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അന്തിമഫലം വിലയിരുത്തുകയാണ് ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പരിശോധിച്ചു തുടർന്ന് എന്താണ് ഫോഴ്സ് എന്ന് നമ്മൾ കണ്ടെത്തി ഇന്റഗ്രൽ ഭാഗത്തിനായി നിങ്ങൾ ഊർജ്ജ കണക്കുകൂട്ടൽ നടത്തുമ്പോൾ ഇത് പൈ ബൈ 2 ആയിത്തീരുന്നു അതിനാൽ എനിക്ക് ഇത് പൈ ബൈ 2 a സ്ക്വയർ ആയി ലഭിക്കും എനിക്ക് പൂർണ്ണമായ ഊർജ്ജം കണ്ടെത്താൻ താൽപ്പര്യപ്പെടുമ്പോൾ ഇത് 2 സിഗ്മ സ്ക്വയർ വിഭജനം E ഇന്റഗ്രൽ ആണ് അതിനാൽ ഞാൻ ഇവിടെ പകരം വയ്ക്കുമ്പോൾ പൈ സിഗ്മ സ്ക്വയർ a സ്ക്വയർ വിഭജനം E ആയി എനിക്ക് ലഭിക്കുന്നു ഇത് നമുക്ക് മുമ്പ് ലഭിച്ചതുപോലെയായിരുന്നു അക്കാലത്ത് പൈ ബൈ 2 ആയി നമ്മൾ അനുമാനിച്ചു ലാംഡയുടെ മൂല്യം നമ്മൾ സ്വീകരിച്ച രീതി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ പരിഹാരത്തിന്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾക്ക് അത് ലഭിച്ചു നമ്മൾ സ്വീകരിച്ച പ്രശ്നമെന്താണ് സെന്റർ ക്രാക്ക് ഉള്ള ഒരു പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ G നിർവചിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു ക്രാക്ക് ടിപ്പിനെക്കുറിച്ചോ അല്ലെങ്കിൽ രണ്ട് ക്രാക്ക് ടിപ്പുകളെക്കുറിച്ചോ അതും പ്രധാനമാണ് അതാണ് ഇവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് G 1 എന്നത് d U a വിഭജനം d 2a ക്ക് കാരണം എനിക്ക് രണ്ട് ക്രാക്ക് ടിപ്പുകൾ ഉള്ള ഒരു സെന്റർ ക്രാക്ക് ഉണ്ട് അതിനാൽ ഞാൻ ഇത് ഡിഫറെൻഷ്യറ്റ് ചെയ്യുമ്പോൾ പൈ സിഗ്മ സ്ക്വയർ a ബൈ E എന്ന് എനിക്ക് G ലഭിക്കും ഈ നിർദ്ദിഷ്ട പ്രശ്നത്തിനായി K യുടെ അനലിറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾക്കറിയാം K യുടെ അനലിറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ് ഇത് സിഗ്മ റൂട്ട് പൈ a ആണ് ഇതിൽനിന്ന് G യും K യും തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ G എന്നത് K സ്ക്വയർ ബൈ E തുല്യമാണ് അത്രയേയുള്ളൂ അത്രയും ലളിതമാണ് എന്നാൽ ഇവിടെ ഒരു നിർദ്ദിഷ്ട പ്രശ്നത്തിനായി നമ്മൾ ഇത് ചെയ്തു ഒരു പൊതു പ്രശ്നത്തിനായി കാണുക നിങ്ങൾക്ക് K എന്ന പദപ്രയോഗം ലഭ്യമായേക്കില്ല ഒരു പൊതു പ്രശ്നത്തിന് നിങ്ങൾ ആദ്യ തത്വങ്ങൾ മുതൽ പോകണം നിങ്ങൾ അത് K ആയി നിലനിർത്തുകയും K യും G യും തമ്മിലുള്ള പരസ്പരബന്ധം കണ്ടെത്തുകയും വേണം G വാസ്തവത്തിൽ ആ വികസനത്തിനായി നമ്മൾ സ്ട്രെസ് ഫീൽഡും ക്രാക്ക് ടിപ്പിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡും ഉപയോഗിക്കും ഇപ്പോൾ നമ്മൾ നോക്കിയ പ്രശ്നത്തേക്കാൾ വളരെ ലളിതവും ബോധ്യപ്പെടുത്തുന്നതുമാണ് അത് സെൻട്രൽ ക്രാക്ക് ഉള്ള ഒരു പ്ലേറ്റിന്റെ പ്രശ്നം നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പൊതു പ്രശ്നത്തിനായി നീങ്ങും എന്നാൽ നിങ്ങൾ അതിലേക്ക് പോകുന്നതിനുമുമ്പ് നമ്മൾക്ക് ലഭിച്ച ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡുകളും നമ്മൾ പരിശോധിക്കും നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം y എന്ന ഡിസ്പ്ലേസ്മെൻറ് ക്കുറിച്ച് നമ്മൾക്ക് ആശങ്കയുണ്ട് അതാണ് v ഡിസ്പ്ലേസ്മെൻറ് അല്ലെങ്കിൽ u y ഡിസ്പ്ലേസ്മെൻറ് നമ്മൾ ഇത് പ്ലെയിൻ സ്ട്രസ്സ്നായി വികസിപ്പിക്കേണ്ടതുണ്ട് തുടർന്ന് പ്ലെയിൻ സ്ട്രെയിനിനും ഈ പദപ്രയോഗത്തിന്റെ രൂപം എന്താണ് ഒന്നു നോക്കൂ എനിക്ക് ഇത് K I ബൈ G റൂട്ട് r ബൈ 2 pi sin തീറ്റ ബൈ 2 ആയി ലഭിക്കുന്നു നമ്മൾ ക്രാക്ക് അക്ഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ക്രാക്ക് അക്ഷത്തിൽ അത് എങ്ങനെ ആയിരിക്കും തീറ്റ വ്യക്തമാക്കുന്നതിലും പോളാർ കോർഡിനേറ്റുകളിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം എല്ലാ സൂചനകളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എനിക്ക് ക്രാക്ക് ടിപ്പിൽ ഉറവിടം ഉറപ്പിക്കുമ്പോൾ വിള്ളൽ ഉപരിതലത്തെ നിങ്ങൾ എങ്ങനെ നിർവചിക്കും ഞാൻ ഇത് ഉപയോഗിക്കേണ്ടിവരുമ്പോൾ ഈ പദപ്രയോഗത്തിൽ പകരം വയ്ക്കേണ്ട തീറ്റയുടെ മൂല്യം എന്താണ് അതിനാൽ അത് മനസ്സിൽ വയ്ക്കുക ഇത് പ്ലെയിൻ സ്ട്രസ്സ് ആയതിനാൽ നമുക്ക് u z എന്ന പദപ്രയോഗവും ഉണ്ട് ഒരിക്കൽ നിങ്ങൾക്ക് പ്ലെയിൻ സ്ട്രസ്സ് ലഭിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്ലെയിൻ സ്ട്രെയിനും ലഭിക്കും നമ്മൾ അവ മുമ്പ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിനും എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം എനിക്ക് ഇത് സൈൻ തീറ്റ ബൈ 2 ഗുണം 2 മൈനസ് 2 ന്യൂ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് ലഭിക്കും അതിനാൽ ഈ വിവരങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ പിന്നിൽ ഉണ്ടായിരിക്കണം വർദ്ധിച്ചുവരുന്ന ക്രാക്ക് എക്സ്റ്റൻഷൻ അടച്ചുകൊണ്ട് KI യും GI യും തമ്മിലുള്ള പരസ്പരബന്ധം ഇനി നമുക്ക് ഒരു പൊതു പ്രശ്നം നോക്കാം നമ്മൾ പടിപടിയായി പോകും ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾ മൊത്തത്തിലുള്ള ഒരു സ്കെച്ച് വരക്കുകയും ക്രാക്ക് ടിപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് ഉപ സ്കെച്ചുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഒന്നിലധികം സ്കെച്ചുകൾ വരയ്ക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുന്നു തുടർന്ന് നമ്മൾ ഒരു ലോഡ് സിഗ്മ പ്രയോഗിക്കുന്നു ഞാൻ ഒരു ക്രാക്ക് ടിപ്പ് പരിഗണിക്കുന്നു ക്രാക്ക് ടിപ്പ് അടയ്ക്കാൻ ആവശ്യമായ ഊർജ്ജം എന്തായാലും അത് രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ഊർജ്ജമാണ്

ഞാൻ ഒരു നീളം ഡെൽറ്റ a ആയി എടുക്കുകയാണെങ്കിൽ ഞാൻ അത് അടയ്ക്കുകയാണെങ്കിൽ അടയ്ക്കാൻ ആവശ്യമായ ഊർജ്ജമായിരിക്കും രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ഊർജ്ജം ഇതിനായി ഗ്ലാസ് ബ്രേക്കിംഗ് പരീക്ഷണം നമ്മൾ ഇതിനകം പരിശോധിച്ചു ഇത് ലബോറട്ടറിയിൽ നടന്ന ഒരു അപകടമായിരുന്നു വിള്ളൽ പ്രചരിക്കുന്നത് നിങ്ങൾ കണ്ടു പേന നീക്കംചെയ്യുമ്പോൾ ഒരു വിടുതൽ കാണാം ബ്രിട്ടിൽ വസ്തുക്കളുടെ കാര്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൈക്കയ്ക്കായി രേഖപ്പെടുത്തി ഗ്ലാസിനായി രേഖപ്പെടുത്തി നമ്മൾ ഊർജ്ജ അധിഷ്ഠിത സമീപനം വികസിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ബ്രിട്ടിൽ സോളിഡുകൾ മാത്രമാണ് പരിഗണിക്കുന്നത് ബ്രിട്ടിൽ സോളിഡുകളിൽ നിന്ന് ഇർവിൻ ഒറോവാൻ എന്നിവർ പ്ലാസ്റ്റിക് രൂപഭേദം വരുത്തുന്നതിനുള്ള ഊർജ്ജം കൊണ്ടുവന്ന് ഡക്റ്റൈൽ സോളിഡുകളിലേക്ക് വ്യാപിപ്പിച്ചു എന്നാൽ സിദ്ധാന്തം വികസിപ്പിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ബ്രിട്ടിൽ സോളിഡുകളിലേക്ക് പരിമിതപ്പെടുത്തും അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് K I ഉം G I ഉം തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുക

അതിനാൽ നിങ്ങൾക്ക് പ്ലേറ്റ് a പ്ലസ് ഡെൽറ്റ a നീളത്തിൽ ഉണ്ട് ഇപ്പോൾ നമ്മൾ സ്ട്രെസ് ഫീൽഡ് വികസിപ്പിക്കുന്നതിനും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് വികസിപ്പിക്കുന്നതിനും സമയം ചെലവഴിച്ചു വിള്ളലിന്റെ അഗ്രമായി എനിക്ക് ഇത് ഉണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ a ദൈർഘ്യമുള്ള വിള്ളൽ അടയ്ക്കാൻ ഞാൻ ശ്രമിക്കും വിള്ളലിന് മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഇവിടെ നോക്കുന്നു ഞാൻ ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്തണം ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്തുന്നതിന് ഞാൻ കൂടുതൽ നീളമുള്ള ക്രാക്ക് ടിപ്പ് ഉത്ഭവം ആയി ഉപയോഗിക്കും സ്ട്രെസ് കണ്ടെത്തുന്നതിന് ഹ്രസ്വമായ ക്രാക്ക് ടിപ്പ് ഉറവിടമായി ഞാൻ ഉപയോഗിക്കും നിങ്ങൾ ഇത് മനസ്സിലാക്കണം നിങ്ങൾ ആനിമേഷൻ നോക്കുമ്പോൾ നിങ്ങൾ അതിനെ നന്നായി വിലമതിക്കും ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്തുന്നതിന് റഫറൻസായി Q ഉപയോഗിക്കുക എന്നതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എനിക്ക് Q ഉള്ളപ്പോൾ ഇതിൽ ഞാൻ ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്തണം ഇത് അതിശയോക്തി കലർന്ന ചിത്രമാണ് ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു നേർരേഖയാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട തീറ്റയുടെ മൂല്യം എന്താണ് തീറ്റ 0 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ് ഇത് 180 ഡിഗ്രിയാണെന്ന് നിങ്ങൾ ദൃശ്യവൽക്കരിക്കേണ്ടതുണ്ട് കാരണം ഞാൻ സംസാരിക്കുന്നത് ക്രാക്ക് ടിപ്പ്ന് പുറകിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ കംപ്രഷൻ ഉപയോഗിച്ച് വിള്ളൽ അടയ്ക്കാൻ പോകുന്നു അതിനിടയിലുള്ള ആനിമേഷൻ ഞാൻ നിർത്തുകയാണ് അതിനാൽ ഞാൻ അത് കംപ്രഷൻ ഉപയോഗിച്ച് അടയ്ക്കുമ്പോൾ വിള്ളൽ മുഖങ്ങൾ സുഖപ്പെടുത്തുന്നു ഇതെല്ലാം ചിന്താ പരീക്ഷണമാണ് ശാരീരികമായി നിങ്ങൾക്ക് ഇതുപോലെ പോയി ചെയ്യാൻ കഴിയില്ല അതിനാൽ മാനസികമായി നിങ്ങൾക്ക് ഇത് ദൃശ്യവൽക്കരിക്കാനാകും ഞാൻ ഈ സ്ട്രെസ് ഫീൽഡ് എഴുതുകയാണ് വെസ്റ്റർഗാർഡിന്റെ സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ വികസിപ്പിച്ചെടുത്തതിൽ നിന്ന് ഇത് വളരെ നേരിട്ടുള്ളതാണെന്ന് കാണുക ഇതാണ് നിങ്ങൾ അഭിനന്ദിക്കേണ്ടത് ഞാൻ ഒരു ക്രാക്ക് ടിപ്പ് എടുക്കുന്നു വിള്ളൽ ഒരു ഡെൽറ്റ a നീട്ടുന്നുവെങ്കിൽ അതിന് ആവശ്യമുള്ള ഊർജ്ജം എന്താണ് ഇന്ന് കണ്ടുപിടിക്കുകയാണ് എന്റെ ആത്യന്തിക താൽപ്പര്യം ഇതിനായി ഞാൻ എന്താണ് ചെയ്യുന്നത് അതിന്റെ വിപരീതമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ദൈർഘ്യമേറിയ വിള്ളൽ എടുക്കുക ചിന്താ പരീക്ഷണത്തിലൂടെ അതിന്റെ ഒരു ഭാഗം അടച്ച് അടയ്ക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം കണ്ടെത്തുക ഇത് ചെയ്യുന്നതിന് ക്രാക്ക് ടിപ്പിന് സമീപത്തായി നമ്മൾ ഇതിനകം വികസിപ്പിച്ചെടുത്ത പ്രസക്തമായ പദപ്രയോഗങ്ങൾ ഞാൻ എടുക്കുന്നു അത്തരം പരിഹാരം ലഭ്യമാണ് ഞാൻ ഈ ആനിമേഷൻ ശ്രേണി പൂർത്തിയാക്കുമ്പോൾ ബ്രിട്ടിൽ വസ്തുക്കൾക്ക് വിള്ളൽ ഭേദമാകുമെന്ന് നിങ്ങൾ കണ്ടെത്തും നമ്മൾ ഇതിനകം കണ്ടു

അളവുകൾ കണക്കാക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുറിപ്പ് ഉണ്ട് ഫോഴ്സ് ഗുണം ഡിസ്പ്ലേസ്മെൻറ് ഞാൻ കണ്ടെത്തണം P അടിസ്ഥാനമാക്കി ഉൽഭവം എടുത്താണ് ആണ് ഫോഴ്സ് കണക്കാക്കുന്നത് അതിനാൽ എനിക്ക് a നീളമുള്ള വിള്ളൽ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഫീൽഡ് എന്തായാലും a നീളമുള്ള വിള്ളലിൻറെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം നിർണ്ണയിക്കും എനിക്ക് ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഡെൽറ്റ a ഉണ്ട് ഒപ്പം എനിക്ക് ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ Q ഉൽഭവത്തിൽ നിന്ന് a പ്ലസ് ഡെൽറ്റ a വിള്ളൽ നീളമുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകത്താൽ നിർണ്ണയിക്കപ്പെടും ഗണിതശാസ്ത്രം വികസിപ്പിക്കുമ്പോൾ നമ്മൾ ഇത് എടുക്കും അത് എടുക്കും എന്നൊക്കെ പറയുംഅപ്പോൾ നമ്മൾ ഒരു ഏകദേശ രൂപം കൊണ്ടുവരും നിങ്ങൾ ചെറിയ അളവിൽ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഗണിതശാസ്ത്രം വികസിപ്പിക്കാൻ കഴിയുകയെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അനുയോജ്യമായ ഏകദേശ കണക്കുകൾ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കില്ല അതിനാൽ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ നേട്ടത്തിനായി ഞാൻ ഈ ആനിമേഷൻ ഒരിക്കൽ കൂടി ആവർത്തിക്കും നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം കാണുകയാണെങ്കിൽ ഈ ആനിമേഷനിൽ സംഭവിക്കുന്നതെന്തും വലതുവശത്ത് ദൃശ്യമാകുന്ന പോയിന്റുകളുമായി സമന്വയിപ്പിക്കും അതിനാൽ ഞാൻ ആനിമേഷൻ ആവർത്തിക്കും നമുക്ക് ദൃശ്യവൽക്കരിക്കേണ്ട ചിന്താ പരീക്ഷണം എന്താണെന്ന് അത് വ്യക്തമാക്കും അതിനാൽ a പ്ലസ് ഡെൽറ്റ a വിള്ളൽ ഇൻറെ നീളം എടുക്കുക ഈ ആനിമേഷൻ ഞാൻ വീണ്ടും കാണിക്കും ആനിമേഷൻ നിരീക്ഷിക്കുക

അതിനാൽ നമ്മൾ ചെയ്യുന്ന ചിന്താ പരീക്ഷണം എന്താണെന്ന് ഇത് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് അല്ലെങ്കിൽ സമ്മർദ്ദം കണ്ടെത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ്പ്രഷനുകൾ ഉണ്ട് പ്രസക്തമായ അളവുകൾ ഉചിതമായി പകരം വയ്ക്കുകയും ഊർജ്ജത്തെ വിലയിരുത്തുകയും വേണം ആശയപരമായി ഇത് കൂടുതൽ ആകർഷകമാണ് കാരണം ഞാൻ വിള്ളലിന്റെ ഒരു ചെറിയ വിപുലീകരണം നോക്കുന്നു മുമ്പത്തെ കേസിൽ നമുക്കൊരു വിള്ളൽ ഉണ്ടായിരുന്നു അത് എങ്ങനെ തുറക്കുന്നു അടയ്ക്കുന്നു എങ്ങനെയാണ് വിള്ളൽ ആദ്യം അവതരിപ്പിച്ചത് ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ട് വിള്ളൽ നീട്ടുന്നു വിപുലീകരിക്കുന്നതിനുപകരം നമ്മൾ അത് അടയ്ക്കുകയാണ് അതിനാൽ ആശയപരമായി ഇത് കൂടുതൽ ആകർഷകമാണ് എല്ലാത്തിനും നമ്മൾ വെസ്റ്റർഗാർഡ് പരിഹാരത്തെ ആശ്രയിച്ചിരിക്കും നമ്മൾ സിംഗുലാർ പരിഹാരത്തെ ആശ്രയിക്കുകയും ഉചിതമായ പദപ്രയോഗങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ചിന്തിക്കുകയും എഴുതുകയും ചെയ്യേണ്ട രണ്ട് വ്യവസ്ഥകളാണ് ഇവ ഞാൻ ഇതിനകം വിശദീകരിച്ചു ഇത് എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തതയ്ക്കായി ഇത് ഒരു വിപുലമായ ചിത്രമായി ഞാൻ കാണിക്കും അതിനാൽ എനിക്ക് ഇവിടെയുള്ളത് എനിക്ക് a എന്ന് അടയാളപ്പെടുത്തിയ ദൂരം ഉണ്ട് അത് ക്രാക്ക് ടിപ്പണ് പിന്നെ ഞാൻ ഡെൽറ്റ a ദൂരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുന്നു ആദ്യ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഞാൻ ഒരു സ്ഥാനം s നോക്കുന്നു അതായത് P ഞാൻ ഒരു ചെറിയ ദൂരം ഡെൽറ്റ s എടുക്കുന്നു അതിനാൽ എനിക്ക് 0 മുതൽ ഡെൽറ്റ എ വരെ ഇന്റഗ്രേഷൻ ചെയ്യാൻ കഴിയും ഇങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് P യിൽ നിന്ന് s അകലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ എഴുതാം എനിക്ക് ഡിസ്പ്ലേസ്മെൻറ് ഉം ഫോഴ്സ് ഉം എഴുതണം ഞാൻ നേരത്തെ ആനിമേഷൻ കാണിച്ചിട്ടില്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് അടച്ച ഒരു ഡിസ്പ്ലേസ്മെൻറ് ഉണ്ടെന്ന് നിങ്ങൾ ദൃശ്യവൽക്കരിക്കില്ല ഫോഴ്സ് പൂർണ്ണമായും പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തുറക്കാനാവില്ല ഇത് അടച്ചു ശരി അതിനാൽ അത് ദൃശ്യവൽക്കരിക്കുന്നതിന് മാത്രം ആനിമേഷൻ നടത്തി ഇപ്പോൾ Q എഴുതുന്നതിനായി നിങ്ങൾ ദൃശ്യവൽക്കരിക്കേണ്ടതുണ്ട് ഇതുപോലുള്ള ഒരു വലിയ വിള്ളൽ ഉണ്ടെന്ന് നിങ്ങൾ ഊഹിക്കുകയും ഡിസ്പ്ലേസ്മെൻറ് എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യണം P എഴുതുന്നത് വളരെ ലളിതമാണ് എന്താണ് സിഗ്മ Y വ്യതിയാനം എന്ന് നിങ്ങൾക്ക് എഴുതാൻ ഈ ചിത്രം പര്യാപ്തമാണ് ഡിസ്പ്ലേസ്മെൻറ് തിരിച്ചറിയാൻ മാത്രം ഒരു നീണ്ട വിള്ളൽ ഉണ്ടെന്ന് നിങ്ങൾ ഊഹിക്കണം നിങ്ങൾ തീറ്റയുടെയും r ന്റെയും മൂല്യം ഉചിതമായി ഉപയോഗിക്കുകയും പദപ്രയോഗം നേടുകയും വേണം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിള്ളൽ മുഖങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്താൻ നിങ്ങൾ പോയിന്റ് s ൽ ഞാൻ പകരം വയ്ക്കേണ്ട r തീറ്റ എന്നിവയുടെ മൂല്യം എന്താണ് നിങ്ങൾക്കറിയാമോ അത് വളരെ പ്രധാനമാണ് അതാണ് ആശയപരമായ ഘട്ടം ആശയപരമായ ഘട്ടത്തിന് നിങ്ങൾ ഉത്തരം നൽകികഴിഞ്ഞാൽ ബാക്കി ഗണിതശാസ്ത്രമാണ് ആശയപരമായ ഘട്ടം നിങ്ങൾ സ്വാംശീകരിക്കേണ്ട ഒന്നാണെന്ന് കാണുക ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായ വിശദീകരണം നൽകി തീറ്റയുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾ പറയണം തീറ്റ ഞാൻ ഇതിനകം നിങ്ങൾക്ക് സൂചന നൽകിയിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ഇത് പൈ ആയി എടുക്കുമെന്ന് നിങ്ങളിൽ പലരും സമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് 0 ആയി എടുക്കരുത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങളുടെ ചിന്ത വളരെ വ്യക്തമായിരിക്കണം ഈ കേസിനായുള്ള r ന്റെ മൂല്യം എന്താണ് എന്റെ കുറിപ്പുകളിൽ എന്റെ പക്കലുള്ളത് നമ്മൾ പരിശോധിക്കും അതിനാൽ എനിക്ക് r എന്നത് ഡെൽറ്റ a മൈനസ് s ആയി ഉണ്ട് ഞാൻ അതിനെ Q രൂപമായി കണക്കാക്കുന്നതിനാൽ ഈ ദൂരം ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് അതേസമയം സ്ട്രെസ് ഫീൽഡ് നിങ്ങൾ തീറ്റയെ 0 ന് തുല്യവും r s ന് തുല്യവുമാണ് എന്നെഴുതുന്നു അതിനാൽ നിങ്ങൾ സ്ട്രെസ് ഫീൽഡിലും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിലും എഴുതുന്ന രീതിയിലുള്ള ഈ സൂക്ഷ്മമായ വ്യത്യാസം ശ്രദ്ധിക്കുക കാരണം രണ്ട് സന്ദർഭങ്ങളിലും ഉത്ഭവം വ്യത്യസ്തമാണ് അതിനാൽ നിങ്ങൾ അത് തിരിച്ചറിയണം അതുകാരണം നിങ്ങളുടെ ദൂരവും തീറ്റയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഇത് എഴുതുകയാണെങ്കിൽ ബാക്കിയുള്ളവ വളരെ ലളിതമാണ് ഗണിതശാസ്ത്രത്തെ സ്വാംശീകരിക്കുന്നതിൽ യാതൊരു പ്രയാസവുമില്ല കാരണം ഇത് ലളിതവും നേരെയുമാണ് ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ് ന്റെ എക്സ്പ്രഷൻ എന്താണ് എന്നതാണ് അന്തിമ പദപ്രയോഗം മാത്രം എഴുതാൻ പോകുന്നതിനാൽ ഇത് എങ്ങനെയെന്ന് ഞാൻ ഇതിനകം എടുത്തുകാണിച്ചു നിങ്ങൾക്ക് സമാനമായ പദപ്രയോഗം ലഭിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുക ഞാൻ a പ്ലസ് ഡെൽറ്റ a നീളമുള്ള ഒരു വിള്ളൽ എടുക്കുന്നതിനാൽ K എന്നത് K I പ്ലസ് ഡെൽറ്റ K I എന്ന് എഴുതണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചില ചെറിയ മാറ്റങ്ങളുണ്ടാകും അതിനാൽ G കൊണ്ട് ഹരിച്ച് റൂട്ട് r ന്റെ മൂല്യം എന്നത് ഡെൽറ്റ a മൈനസ് s വിഭജനം 2 pi എന്ന് എഴുതാം എക്സ്പ്രഷന്റെ മറ്റേ ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2 ബൈ 1 പ്ലസ് ന്യൂ എന്ന് ചുരുങ്ങുന്നു ഈ ഘട്ടത്തിൽ കുഴപ്പമുണ്ടോ ഡിസ്പ്ലേസ്മെൻറ്നുള്ള പദപ്രയോഗം ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചു ഇപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് നോക്കണം നിങ്ങൾ ആദ്യം സിഗ്മ y യുടെ മൂല്യം എഴുതണം അത് K I ബൈ റൂട്ട് 2 pi s ആണ് അത് വളരെ ലളിതവും നേരെയുമാണ് അത് നിങ്ങളുടെ വെസ്റ്റർഗാർഡ് പരിഹാരത്തിൽ നിന്ന് നേരിട്ട് വരുന്നു ഇപ്പോൾ ഞാൻ എനർജി എക്സ്പ്രഷൻ ശ്രദ്ധാപൂർവ്വം എഴുതണം ഇതിനായി മനപൂർവ്വം ഞാൻ B കനമുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിനാൽ ഞാൻ B കനമുള്ള ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ ഡെൽറ്റ A എന്നത് B ഗുണം ഡെൽറ്റ A ആണ് അതിനാൽ G I B ഗുണം ഡെൽറ്റ a ഞാൻ വിലയിരുത്തണം എന്റെ പല വിഷയവികസനങ്ങളിലും ഞാൻ ഇതിനകം പരാമർശിച്ച നിങ്ങൾക്കറിയാം ചില സന്ദർഭങ്ങളിൽ ഞാൻ ഇത് യൂണിറ്റ് കനം ഉപയോഗിക്കും ചില കേസുകൾ നിരന്തരമായ കനം B ഉപയോഗിച്ച് ഞാൻ ചെയ്യും അതിനാൽ വ്യത്യസ്ത രൂപത്തിലുള്ള ആവിഷ്കാരങ്ങളുമായി നിങ്ങൾക്ക് പരിചയപ്പെടാം കാരണം നിങ്ങൾ ഏതെങ്കിലും പുസ്തകം എടുക്കുകയാണെങ്കിൽ അവർ ഒരു പ്രത്യേക രീതിയിൽ എടുത്തിരിക്കുന്നു ഇത് യൂണിറ്റ് കട്ടിക്ക് വേണ്ടി വികസിപ്പിച്ചതാണോ അതോ നിരന്തരമായ കനം Bക്ക് വേണ്ടി വികസിപ്പിച്ചതാണോ എന്നതു വേഗത്തിൽ ബന്ധപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം ഇത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഊർജ്ജത്തിനുള്ള പദപ്രയോഗം നമുക്കുണ്ട് അതിനാൽ ഇത് 0 മുതൽ ഡെൽറ്റ a വരെയുള്ളതാണ് ഞാൻ മുകളിലെ ഉപരിതലം അടയ്ക്കുകയാണ് ഞാൻ താഴത്തെ ഉപരിതലം അടയ്ക്കുകയാണ് അതിനാൽ എനിക്ക് ഒരു ഫാക്ടർ രണ്ട് ചിത്രത്തിലേക്ക് വരുന്നു 2 ക്രാക്ക് ടിപ്പുകൾക്കായി ഈ 2 നെ ബന്ധപ്പെടുത്തരുത് നമ്മൾ അത് അങ്ങനെയല്ല ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ അത് പാതിവഴിയിൽ കേൾക്കുകയും പിന്നീട് എക്സ്ട്രാപോളേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അത് ചെയ്യരുത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം നമ്മൾ അത് ചെയ്യുന്ന സന്ദർഭം മനസിലാക്കുകയും പദപ്രയോഗം ശ്രദ്ധാപൂർവ്വം എഴുതുകയും വേണം അതിനാൽ എനിക്ക് ഇവിടെയുള്ളത് എനിക്ക് അതിൻറെ വിസ്തീർണ്ണം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ എനിക്ക് ഇത് ds ഗുണം B ആയി ലഭിക്കും അതിനാൽ സിഗ്മ y ഗുണം ds ഗുണം B എന്നത് ഫോഴ്സ് നൽകും ഡിസ്പ്ലേസ്മെൻറ് u y അതിന്റെ പകുതിയാണ് കാരണം ലോഡുകൾ ക്രമേണ പ്രയോഗിക്കുമെന്ന് നമ്മൾ എല്ലായ്പ്പോഴും അനുമാനിക്കുന്നു നമ്മുടെ എല്ലാ വികസനത്തിലും ഇംപാക്റ്റ് ലോഡിംഗ് അല്ലെങ്കിൽ ഡൈനാമിക് ലോഡിംഗ് എന്ന് വ്യക്തമായി പ്രസ്താവിച്ചിട്ടില്ലെങ്കിൽ ലോഡുകൾ ക്രമേണ ഉയർത്തുന്നുവെന്ന് നമ്മൾ എല്ലായ്പ്പോഴും അനുമാനിക്കുന്നു അതിനാലാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്ന്റെ പകുതിയോളം ഫോഴ്സ് ഉള്ളത് അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്

നിങ്ങൾക്കറിയാമോ ഡെൽറ്റ a പരിധി പൂജ്യത്തിലേക്ക് പോകുന്നു എന്ന മറ്റൊരു പ്രധാന വശം കൂടി നമ്മൾ കൊണ്ടുവരും അതിനാൽ ഞാൻ പദപ്രയോഗം ലളിതമാക്കാൻ പോകുന്നു സിഗ്മ y u y എന്നിവയ്ക്കുള്ള പദപ്രയോഗം എന്താണെന്ന് ഞാൻ എഴുതാം U y എന്ന പദപ്രയോഗം ലളിതമാക്കാൻ എനിക്ക് സാധ്യതയുണ്ട് പദപ്രയോഗം അതുപോലെതന്നെ എഴുതുകയാണെങ്കിൽ അത് ലിമിറ്റ് ഡെൽറ്റാ a പൂജ്യത്തിലേക്ക് പോകുന്നു 2 ബൈ 1 പ്ലസ് ന്യൂ ഡെൽറ്റ a ഗുണം G വീണ്ടും നമുക്ക് ഇന്റഗ്രൽ 0 മുതൽ ഡെൽറ്റ a വരെ K I വിഭജനം റൂട്ട് 2 pi s ഗുണം K I പ്ലസ് ഡെൽറ്റ K I ഗുണം റൂട്ട് ഡെൽറ്റ a മൈനസ് s വിഭജനം റൂട്ട് 2 pi ഗുണം ds എന്നാണ്

അതിനാൽ ലിമിറ്റ് ഡെൽറ്റ a പൂജ്യത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് എന്താണ് പറയാൻ കഴിയുന്നത് എനിക്ക് ഡെൽറ്റ KI എന്നത് വളരെ ചെറുതായിരിക്കും എന്ന് പറയാൻ കഴിയും അതിനാൽ ഞാൻ അത് K I ആയി എടുക്കും അതിനാൽ ഞാൻ ഇത് K I സ്ക്വയർ എന്ന് എഴുതാം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കൂടാതെ റൂട്ട് 2 pi 2 pi എന്നിവയുടെ അനന്തര ഫലത്തെ കുറച്ച് ലളിതമാക്കാനും തുടർന്ന് ഇത് 2 ഉപയോഗിച്ച് റദ്ദാക്കാനും നിങ്ങൾക്ക് കഴിയും കൂടാതെ ഈ പൂർണ്ണമായ എക്സ്പ്രഷൻ വീണ്ടും ചേർക്കുക അത് ചെയ്യാൻ സാധ്യമാണ് നിങ്ങൾ ഒരു ശ്രമം നടത്തി അത് ലളിതമാക്കുക നമ്മൾ ആഗ്രഹിക്കുന്നു പദപ്രയോഗം എങ്ങനെയുണ്ടെന്ന് കാണുക അതിനാൽ പദപ്രയോഗം ഇതുപോലെ തോന്നുന്നു എനിക്ക് G I ലിമിറ്റ് ഡെൽറ്റ a 0 എന്നതിലേക്ക് നീങ്ങുമ്പോൾ K I സ്ക്വയർ ബൈ 1 പ്ലസ് ന്യൂ പൈ ഗുണം G ഡെൽറ്റ a ഇന്റഗ്രൽ 0 മുതൽ ഡെൽറ്റ a വരെ ഡെൽറ്റ a മൈനസ് s വിഭജനം s മുഴുവൻ പവർ പകുതി ആണ് ഈ സമഗ്രത നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം സാധാരണ നടപടിക്രമം വേരിയബിളുകളുടെ പകരം വെക്കലാണ് അതിനാൽ എനിക്ക് ഇത് s എന്നത് ഡെൽറ്റ a സൈൻ സ്ക്വയർ ആൽഫയ്ക്ക് തുല്യമായി എടുക്കാം ഞാൻ ഇത് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ ഇത് ലളിതമാക്കാനും ഇന്റഗ്രേഷൻ ന്റെ മൂല്യം വിലയിരുത്താനും എനിക്ക് കഴിയും ദയവായി ഒരു മിനിറ്റ് എടുത്ത് ഇത് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഡെൽറ്റ a സൈൻ സ്ക്വയർ ആൽഫയ്ക്ക് പകരമായി എക്സ്പ്രഷൻ ഇന്റഗ്രൽ 0 മുതൽ പൈ ബൈ 2 ആയി ചുരുങ്ങുന്നു 0 മുതൽ ഡെൽറ്റ a വരെ എന്നതിനു പകരമായി 0 മുതൽ പൈ ബൈ 2 ആയി മാറും അപ്പോൾ എക്സ്പ്രഷൻ 2 കോസ് സ്ക്വയേർഡ് ആൽഫ ഡി ആൽഫ എന്ന് ലഭിക്കും അതിനാൽ ഇത് ഇന്റഗ്രേഷൻ ചെയ്തു നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും തീർച്ചയായും ഒരു പ്രശ്നവുമില്ല അതിനാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇത് 1 പ്ലസ് കോസ് 2 ആൽഫ എന്ന് ലഭിക്കും എന്നിട്ട് പരിധികൾ പ്രയോഗിച്ച് ഇതിനെ ലളിതം ആകുമ്പോൾ pi ബൈ 2 എന്ന് ലഭിക്കും നിങ്ങൾ ഈ ലളിതവൽക്കരണം നടത്തുമ്പോൾ G I എന്നത് KI സ്ക്വയേർഡ് ബൈ E എന്ന് ലഭിക്കും അതിനാൽ ഊർജ്ജ പുറന്തള്ളൽ നിരക്കും സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകവും സംബന്ധിച്ച് ഇത് വളരെ പൊതുവായ ഒരു പദപ്രയോഗമാണ് വാസ്തവത്തിൽ ഈ ബന്ധം ആദ്യം റിപ്പോർട്ടുചെയ്തപ്പോൾ G കണക്കാക്കാനുള്ള നല്ലൊരു മാർഗ്ഗം നമ്മൾ കണ്ടെത്തിയെന്ന് അവർക്ക് തോന്നി കാരണം KI സ്ക്വയർ വിലയിരുത്താൻ വളരെ ലളിതമാണ് ആളുകൾ നോക്കിക്കാണുന്ന രീതി ഇതാണ് G മൂല്യനിർണ്ണയത്തിലെ ഒരു ശല്യമായി നിങ്ങൾക്ക് പൈ ഉണ്ടായിരുന്നു K യുടെ മൂല്യത്തിൽ പൈ ആഗിരണം ചെയ്യപ്പെടുന്നു അതിനാൽ ഈ രീതിയിൽ ആയിരുന്നു ആളുകൾ ഇത് നോക്കി കണ്ടിരുന്നത് അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ വികസിപ്പിച്ചെടുത്തത് നമ്മൾ ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് നോക്കിയിരുന്നു ഊർജ്ജ പുറന്തള്ളൽ നിരക്കും സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകവും തമ്മിലുള്ള പരസ്പരബന്ധം കണ്ടെത്തുന്നതിനായി നമ്മൾ നീങ്ങി വാസ്തവത്തിൽ നമ്മൾ രണ്ട് വ്യത്യസ്ത സമീപനങ്ങളാണ് കണ്ടത് ആദ്യ സന്ദർഭത്തിൽ നമ്മൾ ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഉപയോഗിക്കുകയും രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിനുള്ള ഊർജ്ജം എങ്ങനെ കണക്കാക്കാമെന്ന് കണ്ടെത്താനുള്ള ചിന്താ പരീക്ഷണം നടത്തുകയും ചെയ്തു ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ സെന്റർ ക്രാക്കിന്റെ പ്രശ്നത്തിൽ മാത്രമായി ഇത് ഒതുങ്ങി അടുത്ത ചിന്താ പരീക്ഷണത്തിൽ ഒരു അരികിൽ നിന്ന് പുറപ്പെടുന്ന ഒരൊറ്റ വിള്ളലിന്റെ കാര്യം നമ്മൾ എടുത്തു വിള്ളലിന്റെ ഒരു ചെറിയ ഭാഗം അടയ്ക്കാനും വിള്ളൽ അടയ്ക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം എന്താണെന്നും വിലയിരുത്താൻ നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ ബ്രിട്ടിൽ സോളിഡുകൾ ഉപയോഗിക്കുന്നതിനാൽ സിസ്റ്റം പഴയപടിയാക്കാനാകും നമ്മൾ ഊർജ്ജത്തെ ഊർജ്ജ പുറന്തള്ളൽ നിരക്കിനോട് തുലനം ചെയ്തു നിങ്ങൾക്ക് ലഭിച്ച അന്തിമ പദപ്രയോഗം വളരെ പ്രസിദ്ധവും വളരെ ഉപയോഗപ്രദവുമായ ഒരു പദപ്രയോഗമാണ് G I എന്നത് KI സ്ക്വയർ ബൈ Eന് തുല്യമാണ് ഇത് എല്ലായ്പ്പോഴും പ്ലെയിൻ സ്ട്രെസ്നായി വികസിപ്പിച്ചിരിക്കുന്നത് അത് മനസ്സിൽ വയ്ക്കുക നിങ്ങൾക്ക് എപ്പോഴും പ്ലെയിൻ സ്ട്രെസ്നായി ഒരു കൂട്ടം ശുപാർശകൾ ഉണ്ടാകും ഫ്രാക്ചർ മെക്കാനിക്സിലെ പ്ലെയിൻ സ്ട്രെയിനായി മറ്റൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കും അതിനാൽ ഈ പ്രശ്നങ്ങളുടെയെല്ലാം ടാബ് നിങ്ങൾ സൂക്ഷിക്കണം നമ്മൾ സംസാരിക്കുന്നത് പ്ലെയിൻ സ്ട്രെയിനായി അല്ലെങ്കിൽ പ്ലെയിൻ സ്ട്രെസ്നായി ആണെങ്കിലും ക്രാക്ക് ടിപ്പ് ഉത്ഭവം ആയതാണെങ്കിലും അല്ലെങ്കിൽ ക്രാക്ക് സെന്റർ ഉത്ഭവം ആയതാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക